ഈ വിഷയം കപ്പാസിറ്ററുകളും ഇൻഡക്ടറും ആണ് ഒരു കപ്പാസിറ്ററിലൂടെ കറന്റ് ഒഴുകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ പരിഗണിക്കുക ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കറന്റ് താഴേക്ക് ഒഴുകുന്നുവെന്ന് കരുതുക ഇതാണ് കറന്റ് ഒഴുകുന്ന ദിശ കാണിക്കുന്നത് ഇലക്ട്രോണിന് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മുകളിലേക്ക് ഒഴുകുന്നതും ഇതിനിടയിൽ ഡീലക്ട്രിക് മെറ്റീരിയലാണ് ഇവ രണ്ടുo കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ആണ് അതിനാൽ കറന്റിന്റെ ദിശ മുകളിലേക്ക് നീങ്ങുന്നു സാധാരണയായി ഏതെങ്കിലും ലോഹങ്ങളിൽ വിളിക്കപ്പെടുന്ന വൈദ്യുത പ്രവാഹം അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായി ഇലക്ട്രോണുകളുടെ ചലനം എന്നാണ് കറന്റ് ഒരു ദിശയിലാണെങ്കിൽ ഇലക്ട്രോണുകൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇലക്ട്രോൺ ഫ്ലോ മുകളിലേക്ക് ആയിരിക്കും ഇതാണ് ഇലക്ട്രോൺ ഫ്ലോ ആ ഇലക്ട്രോണുകൾ കാരണം യഥാർത്ഥത്തിൽ ഇത് അപ്പർ പ്ലേറ്റ് ആണ് ഇതാണ് ആ താഴത്തെ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ ഇവിടെ താഴെയുള്ള പ്ലേറ്റിലായിരിക്കും ഇതിനർത്ഥം നെഗറ്റീവ് ചാർജ് യഥാർത്ഥത്തിൽ ശേഖരിക്കപ്പെടുകയോ കുന്നുകൂടുകകയോ ചെയ്യും എന്നാണ് അത്ന്കൊണ്ടാണ് ബോട്ടം പ്ലേറ്റ് നെഗറ്റീവ് ചാർജ് ആയി കാണിക്കുന്നത് അതിനാൽ ഈ ഡീലക്ട്രിക് മെറ്റീരിയലിൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലാണ് ഇലക്ട്രിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഇലക്ട്രോണുകളെ മുകളിലെ പ്ലേറ്റ് ഉപേക്ഷിച്ച് അതേ നിരക്കിൽ താഴത്തെ പ്ലേറ്റിൽ ശേഖരിക്കപ്പെടുന്നു ആ വിധത്തിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയും താഴേക്ക് ആയിരിക്കും ഈ രണ്ട് പ്ലേറ്റുകളിലുടനീളം വോൾട്ടേജ് അങ്ങനെ ചാർജ് മറ്റൊരു വിധത്തിൽ ശേഖരിക്കപ്പെട്ടാൽ നമ്മളുടെ വോൾട്ടേജ് ഇതിലൂടെ പ്രയോഗിച്ചാൽ സ്വാഭാവികമായും ആ ചാർജ് രണ്ട് പ്ലേറ്റുകളിൽ മുകളിലെ പ്ലേറ്റിൽ അല്ലെങ്കിൽ ചുവടെ പ്ലേറ്റിൽ ശേഖരിക്കപ്പെടും എന്നാൽ മൊത്തം ചാർജ് ഒന്നുകിൽ ഓർക്കുക താഴെയുള്ള പ്ലേറ്റ് ആണെങ്കിൽ ഇത് q ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ അത് q ആയിരിക്കും എന്നാൽ ആകെ 0 ആയിരിക്കും അപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ലോവർ പ്ലേറ്റ് ആകെ 0 ആയിരിക്കും എന്നാൽ ചോദ്യം കപ്പാസിറ്ററിന്റെ ഈ മൊത്തം ചാർജിൽ അർത്ഥമാക്കുന്നത് ഒന്നുകിൽ അപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ലോവർ പ്ലേറ്റ് എന്നാണ് ഇതാണ് ഡയഗ്രം ഈ വിശദീകരണമെല്ലാം ഇവിടെയുണ്ട് എന്തായാലും മിക്ക ലോഹങ്ങളിലും കറന്റ് എന്നാൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു വൈദ്യുത പ്രവാഹം താഴേക്ക് ഒഴുകുന്നു ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഇലക്ട്രോണുകൾ യഥാർത്ഥത്തിൽ മുകളിലേക്ക് നീങ്ങുന്നു എന്നാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇലക്ട്രോണുകൾ മുകളിലേക്ക് നീങ്ങുമ്പോൾ ചിത്രം 5 2 ൽ കാണിച്ചിരിക്കുന്നതുപോലെ കപ്പാസിറ്ററിന്റെ താഴത്തെ പ്ലേറ്റിൽ അവ ശേഖരിക്കും താഴത്തെ പ്ലേറ്റ് ആകെ ചാർജ് നെഗറ്റീവ് ചാർജ് ശേഖരിക്കുന്നു അത് ഡീലക്ട്രിക്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാക്കുന്നു ഈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോണുകളെ താഴത്തെ പ്ലേറ്റിൽ ശേഖരിക്കുന്ന അതേ നിരക്കിൽ അപ്പർ പ്ലേറ്റ് ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നു കപ്പാസിറ്റർ കറന്റ് കൂടുന്നതായി തോന്നുന്നു ചാർജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കപ്പാസിറ്ററിലുടനീളം വോൾട്ടേജ് ദൃശ്യമാകുന്നു കപ്പാസിറ്ററിൽ ഒരു പ്ലേറ്റിൽ ചാർജ് ശേഖരിക്കപ്പെടുന്നത് പറയുക കാരണം ഒരു പ്ലേറ്റ് ചാർജും മറ്റൊന്ന് എന്നാൽ രണ്ട് പ്ലേറ്റുകളും പറഞ്ഞാൽ അത് 0 ആകും കപ്പാസിറ്ററിൽ ഒരു പ്ലേറ്റിൽ ചാർജ് ശേഖരിക്കപ്പെടുന്നു അടുത്തതിലേക്ക് പോകുകയാണെങ്കിൽ രണ്ട് പ്ലേറ്റുകളിലെയും മൊത്തം ചാർജ് എല്ലായ്പ്പോഴും പൂജ്യമാണെന്ന് ശ്രദ്ധിക്കുക കാരണം ഒരു പ്ലേറ്റിലെ പോസിറ്റീവ് ചാർജ് മറ്റൊരു പ്ലേറ്റിലെ നെഗറ്റീവ് ചാർജ് ഉപയോഗിച്ച് തുല്യമാക്കുന്നു അതിനാൽ ആകെ 0 ആയിരിക്കും അങ്ങനെ മൊത്തം ചാർജ് ഏതെങ്കിലും ഒരു പ്ലേറ്റിന്റെ ചാർജ് ആയിരിക്കും പ്ലേറ്റുകളിൽ മുകളിൽ നിന്ന് ഒരു വോൾട്ടേജ് ഉറവിടം v കപ്പാസിറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു പോസിറ്റീവ് ചാർജും q മറ്റൊരു പ്ലേറ്റിൽ നെഗറ്റീവ് ചാർജ് q നിക്ഷേപിക്കുന്നു രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് പ്രയോഗിക്കുന്നുവെന്ന് കരുതുക ഈ വശം വോൾട്ടേജ് ഉറവിടത്തിന്റെ ടെർമിനലാണ് q ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു കൂടാതെ മൊത്തം ചാർജ് 0 ആയിരിക്കും കപ്പാസിറ്ററുകൾ മൊത്തം ചാർജ് ഒരു പ്ലേറ്റിൽ ഒന്നുകിൽ അത് ആണ് അല്ലെങ്കിൽ മറ്റേതിൽ ഇത് ലളിതമായ ഡയഗ്രമാണ് സംഭരിച്ച ചാർജ് q അളവ് പ്രയോഗിച്ച വോൾട്ടേജിന് നേരിട്ട് ആനുപാതികമാണ് q c v c ആനുപാതികതയുടെ സ്ഥിരതയായതിനാൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്നറിയപ്പെടുന്നു കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ് അതിനാൽ q c v സമവാക്യം 1 ൽ നിന്ന് കപ്പാസിറ്റൻസ് എന്നത് ഒരു കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റിലെ ചാർജിന്റെ അനുപാതം രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസത്തിലാണെന്ന് നിർവചിക്കുക അതിനാൽ വാസ്തവത്തിൽ കപ്പാസിറ്റൻസ് അത് q അല്ലെങ്കിൽ v നെ ആശ്രയിക്കുന്നില്ല ഇത് കപ്പാസിറ്ററിന്റെ ഭൌതിക അളവിനെ ആശ്രയിച്ചിരിക്കുന്നു ചിത്രം 1 ൽ കാണിച്ചിരിക്കുന്ന സമാന്തര പ്ലേറ്റ് കപ്പാസിറ്ററിന് അതിനാൽ C A d A എന്നത് ഓരോ പ്ലേറ്റിന്റെയും ഉപരിതല വിസ്തീർണ്ണം ആണെങ്കിൽ d എന്നത് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡീലക്ട്രിക് ദൂരമാണ് എപ്സിലോൺ ഡീലക്ട്രിക് മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി ഈ സമവാക്യം ഹയർ സെക്കണ്ടറി ഭൌതികശാസ്ത്രത്തിൽ നിന്ന് പരിചിതമാണെന്ന് നമുക്കറിയാം ചിത്രം 4 ൽ സ്ഥിരവും വേരിയബിൾ കപ്പാസിറ്ററിനുമുള്ള സർക്യൂട്ട് ചിഹ്നങ്ങൾ കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ വേരിയബിൾ എന്നാൽ ഒരു അമ്പടയാളം മാത്രമാണ് കറന്റ് i കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ പ്രവേശിക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു കറന്റ് പോസിറ്റീവിൽ നിന്ന് വിട്ടുപോകുകയാണെങ്കിൽകപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു അതിനാൽ ഞാൻ അത് വ്യക്തമാക്കാം അതിനാൽ ഇത് നിശ്ചിത കപ്പാസിറ്റർ ചിഹ്നമാണ് വേരിയബിൾ പ്രതിരോധം കാണിച്ച വഴി ഇതാണ് ആ വഴി അതേ രീതിയിൽ കാണിച്ചിരിക്കുന്നു ഇത് സർക്യൂട്ട് ചിഹ്നം ഉറപ്പിച്ചിരിക്കുന്നു ഇത് നിശ്ചിതമാണ് ഫിഗർ ബി വേരിയബിൾ കപ്പാസിറ്റർ ഇപ്പോൾ ഞാൻ പാസ്സീവ് സൈൻ കൺവെൻഷൻ അനുസരിച്ച് പറഞ്ഞു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ കറന്റ്ഫ്ലോ കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലേക്കാണ് കൂടാതെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആണ് ഇപ്പോൾ കപ്പാസിറ്റർ കറന്റ് വോൾട്ടേജ് ബന്ധം ലഭിക്കാൻ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക സമവാക്യം 1 ൽ q cv അതിനാൽ dqdt c dvdt ഇവിടെയാണ് ഞാൻ എഴുതുന്നത് ഈ സമവാക്യത്തിന്റെ 1 ന്റെ ഉത്ഭവം സമയവുമായി ബന്ധപ്പെട്ട് എടുക്കുന്നു dq എന്ന അടിസ്ഥാന ആശയം ആദ്യ അധ്യായത്തിൽ നിന്ന് എടുത്താൽ i dq dt അതിനാൽ i c dvdt അതിനാൽ ഇത് സമവാക്യം 5 ഇത് ഒരു കപ്പാസിറ്ററിന്റെ കറന്റ് വോൾട്ടേജ് ബന്ധമാണ് ചിത്രം 5 ൽ കാണിച്ചിരിക്കുന്ന ബന്ധങ്ങൾ പോസിറ്റീവ് സൈൻ കൺവെൻഷൻ അനുമാനിക്കുന്നു വോൾട്ടേജ് മാറ്റത്തിന്റെ നിരക്ക് dvdt ആണ് ഇതാണ് സ്ലോപ്പ് c അതിനാൽ ഇത് ഒരു രേഖീയമാണ് അത് അടിസ്ഥാനപരമായി ഒരു രേഖീയ സമവാക്യമാണ് അതിനാൽ c എന്നത് i dvdt ൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ് അതിനാൽ സമവാക്യം 5 നെ തൃപ്തിപ്പെടുത്തുന്ന കപ്പാസിറ്ററുകൾ ഈ സ്വഭാവത്തിൽ നിന്നും രേഖീയമാണെന്ന് പറയപ്പെടുന്നു അതിനാൽ ഇത് ഒരു ലീനിയർകപ്പാസിറ്ററുകൾ ആണെന്ന് അനുമാനിക്കും അടുത്തത് കപ്പാസിറ്റർ വോൾട്ടേജ് കറന്റ് ബന്ധമാണ് സമവാക്യത്തിന്റെ 5രണ്ട് വശങ്ങളും സംയോജിപ്പിച്ചു കൊണ്ട് ലഭിക്കും കാരണം ഇവിടെ i c dvdt ലഭിക്കും അതിനാൽ dvdt അതായത് dv 1cidt ആയിരിക്കും അതിനാൽ ഇരുവശവും സംയോജിപ്പിക്കുകയാണെങ്കിൽഅത് ഒരു പരിധി വരെ അനന്തമായിരിക്കും അതിനാൽ ചോദ്യം ഇപ്പോൾ ഞാൻ വ്യക്തമാക്കട്ടെ എന്നതാണ് ഇപ്പോൾ ചോദ്യം ഈ പരിധിക്കുള്ളിൽ അനന്തമാണ് യഥാർത്ഥത്തിൽ vt0 എഴുതുന്നു ആ 1ct0 ആയിഎന്നതാണ് t idt bt0 യഥാർത്ഥത്തിൽ ഈ സമവാക്യം ഞാൻ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 1c തവണ ഇൻഫിനിറ്റി മുതൽ t0 വരെ ആണ് idt അധികം t0 മുതൽ t വരെ idt 1c തവണ ഇൻഫിനിറ്റിമുതൽ t0 വരെ idt യെ vt0 എന്ന് വിളിക്കുന്നു ഇവിടെ എന്താണ് vt0 യഥാർത്ഥത്തിൽ എഴുതുന്നത് അതായത് വി ഇൻഫിനിറ്റി ചില സമയങ്ങളിൽ അത് 0 ആയിരുന്നു വോൾട്ടേജ് ഇല്ലായിരുന്നു പിന്നെ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ടില്ല എന്നാണ് ഈ ഭാഗം അർത്ഥമാക്കുന്നത് ഈ പദം എഴുതുമ്പോൾ 1c infinity മുതൽ t0 എന്നിട്ട് idt ഈ സമവാക്യം ഈ രീതിയിൽ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ 1c idt കാരണം സംയോജിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ആയിരിക്കും dv ഇത് സംയോജിപ്പിക്കുകയാണെങ്കിൽ അത് ആയിരിക്കും vt0 അതായതു v infinity അതിനാൽ ചില ഭാഗങ്ങളിൽ v ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്നു അതിനാൽ അതിനർത്ഥം ആ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്ന വോൾട്ടേജ് ഇല്ല എന്ന് പറയാൻ കഴിയും കപ്പാസിറ്റർ കഴിഞ്ഞ കാലത്തിന്റെ ചില ഭാഗമായിരുന്നു അതിനാൽ ആ കേസിൽ എന്തു സംഭവിക്കുമെന്ന് മാത്രം vt0 ആയിരിക്കും എന്തുകൊണ്ട് ഈ സമവാക്യം ന് അവിടെ ഈ VT0 എന്തുകൊണ്ട് എന്നു ക്ലിയർ ചെയ്യാം അത് യഥാർത്ഥത്തിൽ vt0 ഉണ്ടായിരുന്നതു വേണം എന്നാൽ v അനന്തത 0 ആയിരിക്കണം അല്ലെങ്കിൽ ഈ സമവാക്യത്തിൽ നിന്ന് എഴുതുക q cv അല്ലെങ്കിൽ qt0 ഏത് സമയത്തും qt0 c vt0 ഇത് vtഎഴുതിയിരിക്കുന്നു0 qt0c എന്ന് അതായത് ഈ പദം കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജാണ് t t0 അടിസ്ഥാനപരമായി ഇത് എടുക്കുമ്പോഴെല്ലാം ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു ആശയം കപ്പാസിറ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയുടെ ഈ ഭൂതകാല ചരിത്രം എടുക്കും അതിനാൽ എന്തായാലും ഞാൻ അത് വ്യക്തമാക്കാം അതിനർത്ഥം vt0 qt 0 c എന്നത് t0 ൽ കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജാണ് ഈ സമവാക്യം 7 കാണിക്കുന്നത് കപ്പാസിറ്റർ വോൾട്ടേജ് കപ്പാസിറ്റർ കറന്റിന്റെ മുൻകാല ചരിത്രത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അത് കാരണം vt0 ഇവിടെയാണെന്നും അതിനാൽ കപ്പാസിറ്ററിന് മെമ്മറിയുണ്ട് അത് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി ആണ് അതിനാൽ അതുകൊണ്ടാണ് t ഇൻഫിനിറ്റി t0 t0 മുതൽ ഞാൻ മുമ്പ് എഴുതിയത് V ഇൻഫിനിറ്റി 0 ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഈ സാഹചര്യത്തിൽ കപ്പാസിറ്ററിലേക്ക് നൽകുന്ന ഈ തൽക്ഷണ പവർ p vi ആണ് പക്ഷേ i c dvdt അതിനാൽസബ്സ്റ്റിട്യൂഷൻ ഞാൻ ഇവിടെ എഴുതുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ i c dvdt ഇവിടെ ഇടുക ഇത് cv dvdt ആയിരിക്കും ഇത് സമവാക്യം 8 ഇപ്പോൾ കപ്പാസിറ്ററിൽ മുമ്പ് സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം t pdt ന് ഇൻഫിനിറ്റി നൽകുന്നു അതിനാൽ p എന്നത് പവർ vi ആണെന്നും സമയം കൊണ്ട് ഗുണിച്ചെന്നും p dt പറയുന്നു ഇത് ഊർജ്ജവും അനന്തവുമാണ് അതിനാൽ c അനന്തത t rt cv dvdt എന്നിവ എഴുതാം c എന്നത് ഈ ∫ ന് പുറത്ത് എടുത്ത ഒരു സ്ഥിരാങ്കമാണ് തുടർന്ന് v dvdt അതിനാൽ dt പോയി ഇത് c ∫ t v dv ആയിരിക്കും ഇപ്പോൾ ഇത് സംയോജിപ്പിക്കുക മനസ്സിലാക്കാവുന്ന ലളിതമായ കാര്യമാണ് സംയോജിപ്പിക്കുകയാണെങ്കിൽ അത് 12 cv ∫ ആയിരിക്കും cv2 2 ആകും 12 cv 2 t t ന് അനന്തത കപ്പാസിറ്റർ ഇൻഫിനിറ്റിയിൽ ചാർജ് ചെയ്തിട്ടില്ല മുൻകാലങ്ങളിൽ ചില സമയങ്ങളിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യാതെ തുടരുമെന്ന് ഞാൻ പറഞ്ഞു v ഇൻഫിനിറ്റി 0 ആയിരിക്കും അത് 12 cv2 ആയിരിക്കും അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ വാസ്തവത്തിൽ ഇത് vt 2 ആണ് എന്നാൽ ഇവിടെ v 2 ഒഴിവാക്കിയത് അത് 12 cv ആയിരിക്കും ഇൻഫിനിറ്റി 2 യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ആയിരിക്കണം അത് യഥാർത്ഥത്തിൽ 12 cv2 ആയിരിക്കും T യുടെ പ്രവർത്തനം എടുക്കുകയാണെങ്കിൽ അപ്പോൾcv 2 12 ഇൻഫിനിറ്റി എന്നാൽ v ഇൻഫിനിറ്റി 0 ആകുന്നു അതിനാൽ 12 cv2 എന്ന് എഴുതിയിരിക്കുന്നു അതിനാൽ ഇത് സമവാക്യം 10 ആണ് അടുത്തത് ആ v q c എടുക്കുക q c v എന്ന് അറിയുക ഇവിടെ സബ്സ്റ്റിട്യൂഷൻ വയ്ക്കുക അപ്പോൾ w q 2 2 c ലഭിക്കും ഇത് സമവാക്യം 11 ആണ് അതിനാൽ ഈ സമവാക്യത്തെ ഊർജ്ജം സമവാക്യത്തിൽ സബ്സ്റ്റിട്യൂഷൻ വിളിക്കുന്നു ഈ ഊർജ്ജം കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്നു അതാണ് 12 cv2 എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ 12 cq 2 10 11 സമവാക്യം കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ നിലനിൽക്കുന്ന വൈദ്യുത മണ്ഡലത്തിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം നൽകുന്നു കപ്പാസിറ്ററിന് രണ്ട് പ്ലേറ്റുകളുണ്ട് അതിനാൽ ഊർജ്ജം സംഭരിച്ചിരിക്കുന്നു കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയിൽ നിലനിൽക്കുന്ന വൈദ്യുത മണ്ഡലത്തിൽ എന്ത് വിളിക്കുന്നു അനുയോജ്യമായ ഒരു കപ്പാസിറ്ററിന് ഊർജ്ജം വിനിയോഗിക്കാൻ കഴിയില്ല ഈ ഊർജ്ജം താപത്തിന്റെ രൂപത്തിൽ ചിതറിക്കിടക്കുന്ന റെസിസ്റ്റർ പോലെ വീണ്ടെടുക്കാനാകും എന്നാൽ ഈ സാഹചര്യത്തിൽ അനുയോജ്യമായ കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ ഊർജ്ജം വിനിയോഗിക്കാൻ കഴിയാത്തപ്പോൾ ഈ ഊർജ്ജം വീണ്ടെടുക്കാൻ കഴിയും ഒരു കപ്പാസിറ്ററിന്റെ പ്രധാന ഗുണങ്ങൾ താഴെ പറയുന്നവയാണ് ആദ്യത്തേത് സമവാക്യം 5 ൽ നിന്നാണ് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതിന് തുല്യമാണ് dvdt സമവാക്യം 5 ഒരു കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് ഡിസി വോൾട്ടേജായ സമയത്തിനനുസരിച്ച് മാറുന്നില്ല ഉദാഹരണത്തിന് ഇത് സമയമാണെന്നും ഇത് വോൾട്ടേജാണെന്നും ഒരു ഡിസി വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അത് ഒരു സ്ഥിരാങ്കമാണെന്നും കരുതുക ഏത് സമയത്തും ഏത് പോയിന്റും ഡെറിവേറ്റീവ് dvdt 0 ആണ് ഇത് ഡിസി വോൾട്ടേജാണെങ്കിൽ i 0 ആകും അതായത് കപ്പാസിറ്ററിലുടനീളമുള്ള വോൾട്ടേജ് സമയത്ത് കറന്റ് വഴി മാറാത്തപ്പോൾ കപ്പാസിറ്റർ 0 ആണ് ഡിസി വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ഇത് സ്ഥിരമായ ഒരു അവസ്ഥയാണ് ഈ വിഷയത്തിന് ശേഷം ഡിസി ക്ഷണികത എപ്പോൾ കാണും കപ്പാസിറ്ററുടെയും ഇൻഡക്ടറിന്റെയും സ്വഭാവം പിന്നീട് കാണാം കപ്പാസിറ്റർ ഡിസിയിലേക്കുള്ള ഒരു തുറന്ന സർക്യൂട്ട് ആണ് അത് മാറുന്ന സമയത്ത് സ്ഥിരമായി പോകുന്നില്ല കാര്യങ്ങൾ വ്യത്യസ്തമായി മാറുന്ന സമയത്ത് മാറുന്നു പക്ഷേ അങ്ങനെ ഒരു കപ്പാസിറ്റർ ഡിസിയിലേക്ക് തുറന്ന സർക്യൂട്ട് ആണ് എന്നിരുന്നാലും ഒരു കപ്പാസിറ്ററിലുടനീളം ഒരു ഡിസി വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററിലുടനീളം ഒരു ഡിസി വോൾട്ടേജ് ബന്ധിപ്പിക്കുക കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും രണ്ടാമത്തെ പോയിന്റ് കപ്പാസിറ്ററിലെ വോൾട്ടേജ് തുടർച്ചയായിരിക്കണം കപ്പാസിറ്റർ പ്രതിരോധിക്കുകയും അതിലൂടെയുള്ള വോൾട്ടേജിലെ പെട്ടെന്നുള്ള മാറ്റം നേരെമറിച്ച് ഒരു കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയും അത് ഇപ്പോൾ ഡിസി ക്ഷണികമായ സമയത്ത് കാണില്ല അതിനാൽ ഒരു കപ്പാസിറ്ററിലേക്കുള്ള കറന്റ് തൽക്ഷണം മാറാൻ കഴിയും പ്രത്യേകിച്ചും ഇത് പഠിച്ചതിനുശേഷം ആ കാലഘട്ടത്തിലെ കപ്പാസിറ്ററിന്റെ പെരുമാറ്റം പ്രത്യേക സ്ഥിരതയുള്ള അവസ്ഥയിൽ എന്നാൽ ഈ വിഷയം കവർ ചെയ്തതിനുശേഷം ഒരു ഡിസി ട്രാൻസിറ്റന്റ് പരിഗണിക്കുക ആ സമയത്ത് കപ്പാസിറ്ററുടെയും ഇൻഡക്റ്ററുടെയും പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ അറിയും ആ താൽക്കാലിക അവസ്ഥയെയാണ് ഞാൻ വിളിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കപ്പാസിറ്ററിന് തൽക്ഷണം മാറാൻ കഴിയുമെങ്കിലും കറന്റ് വിപരീതമായി അതിനാൽ ഇത് ഒരു കാര്യമാണ് അടുത്തത് അനുയോജ്യമായ ഒരു കപ്പാസിറ്ററിന് ഊർജ്ജം പുറന്തള്ളാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു കപ്പാസിറ്റർ അതിന്റെ ഫീൽഡിൽ ഊർജ്ജം സംഭരിക്കുമ്പോൾ സർക്യൂട്ടിൽ നിന്ന് വൈദ്യുതി എടുക്കുകയും സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുമ്പോൾ മുമ്പ് സംഭരിച്ചിരുന്ന ഊർജ്ജം തിരികെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഇതെല്ലാം കപ്പാസിറ്ററിനെക്കുറിച്ചാണ് അതിനാൽ ഡിസി ട്രാൻസിറ്റന്റ് പരിഗണിക്കാൻ അതുകൊണ്ടാണ് ആ സമയത്ത് എസി സർക്യൂട്ട് ആ സമയത്ത് പ്രതിരോധശേഷി കപ്പാസിറ്റൻസ് ഇൻഡക്റ്റൻസ് എല്ലാം വരുന്നത് അതിനാൽ അത് പിന്നീട് ഡിസി ട്രാൻസിയന്റ് പൂർത്തിയാക്കിയ ശേഷം സിംഗിൾ ഫേസ് സർക്യൂട്ടിലേക്ക് പോകും ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാം തീർച്ചയായും ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ കഴിയുന്നിടത്തോളം എസി ക്ഷണികത പഠിക്കില്ല അതിനാൽ ചില ഉദാഹരണങ്ങൾ പറയും ഉദാഹരണത്തിന് 3 മൈക്രോ ഫറാഡ് കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ചാർജ് 20 വോൾട്ട് നു കുറുകെ കണക്ട് ചെയ്യുന്നു കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം വളരെ ലളിതമായ കാര്യമാണ് ഇതിന് 3 മൈക്രോ ഫാരഡ് നൽകിയിരിക്കുന്നു q cv c എന്നത് 3 മൈക്രോ ഫാരഡ് ആണ് പവർ 6 ഫാരഡിലേക്ക് 3 10 എന്നാണ് വോൾട്ടേജ് 20 വോൾട്ട് ആണ് ഇത് 60 മൈക്രോ കൂളംബോം ആണ് ഊർജ്ജം 12 12cv 2 12 c ആണ് പവർ 6 ഫാരഡ് മൈക്രോ ഫറാഡ് ഫറാഡിലേക്ക് പരിവർത്തനം ചെയ്യുക അതിനാൽ പവർ 6 vലേക്ക് 12 3 10 2 20 2 അതായത് 600 മൈക്രോ ജൂൾസ് അടുത്തത് ഒരു 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് ആണ് 6 ഇ പവർ 3000 മില്ലി ആമ്പിയറിലേക്ക് പ്രാരംഭ കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആണെന്ന് കരുതുന്നതിലൂടെ വോൾട്ടേജ് നിർണ്ണയിക്കേണ്ടതുണ്ട് ഈ ഫോർമുല അറിയുക v 1c 0 മുതൽ 2 id idt v 0 ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സമവാക്യം v 1c idt ഇതാണ് സമവാക്യം 7 അപ്പോൾ അത് വീണ്ടും താഴേക്ക് വരും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ സമവാക്യം 7 ഇത് 1c 0 മുതൽ t idt v0 പ്രാരംഭ സമയക്രമംഎടുത്തിട്ടുണ്ട്0 എന്നാൽ v 0 0പ്രശ്നത്തിൽ 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്ററിലൂടെ കറന്റ് നൽകുന്നത് അതിലുള്ള വോൾട്ടേജ് നിർണ്ണയിക്കുന്നത് കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആണ് പ്രാരംഭ കപ്പാസിറ്റർ വോൾട്ടേജ് 0 ആണ് അത് v 0 ആണ് 1c എന്നത് പവർ 6 ലേക്ക് 2 2 10 ആണ് ഇത് 0 മുതൽ t വരെ 6 e 3000 ആണ് t 10 3 കാരണം ഈ കറന്റ് മില്ലി ആമ്പിയർ 6 e പവർ 3000 മില്ലി ആമ്പിയറിന് നൽകി ആമ്പിയർ പരിവർത്തനം ചെയ്യുന്നു അതിനാൽ പവർ 3 ലേക്ക് 10 കൊണ്ട് ഗുണിച്ചാൽ അതുകൊണ്ടാണ് ഇവിടെ മൾട്ടി ഡിടി ഇത് സംയോജിപ്പിക്കാൻ 1 e 3000 t വോൾട്ട് ആയിരിക്കും ഇതാണ് ഉത്തരം ഈ എളുപ്പമുള്ള ഉദാഹരണം ഇപ്പോൾ അടുത്തത് ചിത്രം 5 6 അതാണ് ഞാൻ 6 എ എന്ന് പറയും കാരണം ഇത് അഞ്ചാം അധ്യായമാണ് കൂടാതെ ചിത്രം 5 ൽ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് vt 6 b qt ഉം i t യും പ്ലോട്ട് ചെയ്യണം ഇപ്പോൾ ഈ സർക്യൂട്ട് നൽകിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം ഈ ലളിതമായ പരമ്പര സർക്യൂട്ടും ഒരു വോൾട്ടേജ് സ്രോതസ്സും കപ്പാസിറ്ററുകളുമായി സി പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു c 1 മൈക്രോ ഫാരഡ് നൽകി കൂടാതെ അതിലൂടെ കറന്റ് ഒഴുകുന്നു വോൾട്ടേജിന്റെ തരംഗരൂപമാണ് ഇവിടെ വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ഡ്രോയിംഗ് വരയ്ക്കുന്നത് ഇതുപോലെയാണ് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ആയിരിക്കും അതിനാൽ പറയുന്നതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ ഈ നേർരേഖയുടെ ചരിവ് എടുക്കുകയാണെങ്കിൽ ഇത് 10 വോൾട്ട് ആണ് ഇത് മൈക്രോ സെക്കന്റിലാണ് ഈ നേർരേഖയുടെ ചരിവ് എടുക്കുകയാണെങ്കിൽ ഇത് 10 ആയിരിക്കും ഇത് 10 ആണ് അതിനാൽ ചരിവ് 10 കൊണ്ട് ഹരിക്കപ്പെടും ഇത് മൈക്രോ സെക്കൻഡ് 2 മൈക്രോ സെക്കന്റ് ആണ് അതായത് 2 10 eപവർ 6 വരെ മുഴുവൻ പവർ സെക്കൻഡും ഇത് നേർരേഖയുടെ ചരിവാണ് അതിനാൽ ടാൻ തീറ്റ ഇതാണ് ചരിവ് അതുപോലെ ഇതിന് സമാനമായി ഇത് ചരിവാണ് ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ നേർരേഖയിൽ ഇത് വരും അതിനാൽ ഇത് 1 സെക്കൻഡ് മാത്രമായിരിക്കും 4 മുതൽ 5 വരെ അർത്ഥമാക്കുന്നത് 1 സെക്കൻഡ് മാത്രമാണ് ഇത് 10 ആണ് ഇത് ആംഗിൾ 90 ൽ കൂടുതലാണ് നെഗറ്റീവ് ആയിരിക്കും ഇത് 10 ഉം 4 മുതൽ 5 വരെ ആയിരിക്കും ഇത് 1 മൈക്രോ സെക്കന്റ് ആണ് കാരണം ഇത് മൈക്രോയിലാണ് രണ്ടാമത് ഇത് 1 10 പവർ 6 വോൾട്ടിസെക്കൻഡിൽ ആയിരിക്കും ഇത് യഥാർത്ഥത്തിൽ ഈ നേർരേഖയുടെ ചരിവാണ് ഇത് സ്ഥിരവുമാണ് 2 മുതൽ 4 സെക്കന്റ് വരെ അത് സ്ഥിരമാണ് ഇതാണ് വോൾട്ടേജ് അതായത് 0 മുതൽ 2 വരെയുള്ള വോൾട്ടേജ് ഇത് ഒരു സമയം വ്യത്യാസപ്പെടുന്നു വീണ്ടും 4 മുതൽ 5 മൈക്രോ സെക്കന്റ് വരെ സമയം വ്യത്യാസപ്പെടുന്നു 2 മുതൽ 4 മൈക്രോ സെക്കന്റ് വരെ അത് സ്ഥിരമാണ് ഈ വോൾട്ടേജ് ഉറവിടം നൽകിയിരിക്കുന്നു ഇപ്പോൾ ആ q c v അതിനാൽ qt cvt എഴുതുക കൂടാതെ ഇവിടെ c എന്നത് 1 മൈക്രോ ഫറാഡ് ആണ് അതായത് പവർ 6 ഫാരഡ് വരെ ഇത് പവർ 6 vt ലേക്ക് 10 ആണ് അതായത് q ന്റെ യൂണിറ്റ് കൂലോംബ് ആണ് ഇത് vt ആണ് ഇത് 10 മുതൽ പവർ 6 വരെയാണ് vt മൈക്രോ കൂലോംബ് പവർ 6 ലേക്ക് കേസ് 10 എന്നിവയിൽ ആശയക്കുഴപ്പം ഉണ്ടാകരുത് കൂടാതെ ഈ vt മൈക്രോ കൂലംബ് പരിവർത്തനം ചെയ്യുകയും വേണം ഇപ്പോൾ qt കാണിച്ചിരിക്കുന്ന പ്ലോട്ട് qt vt മൈക്രോ കൂലോംബ് ആയിരിക്കും അതിനാൽ qt യഥാർത്ഥത്തിൽ r നേരിട്ട് vt ലേക്ക് വരുന്നു അതായത് ആ qt ന്റെ ഈ ആകൃതി vt ന് തുല്യമായിരിക്കുംകാരണം qt vt മൈക്രോ കൂലംബ് vt ന് ഏത് ആകൃതി ഉണ്ടെങ്കിലും അത് ഒരേ ആകൃതി ആയിരിക്കും യൂണിറ്റ് മാറും എന്നതാണ് ഏക കാര്യം qt ഇതാണ് എന്റെ qty അക്ഷം qt ഇത് എന്റെ t മൈക്രോ സെക്കന്റ് ആണ് എന്നാൽ ഈ മൈക്രോ കൂലോംബ് ആകൃതി 10 ആകുന്നു എല്ലാം നിലനിൽക്കും ഒരേയൊരു കാര്യം യൂണിറ്റ് മാറും കാരണം qt അടിസ്ഥാനപരമായി vt c 1 മൈക്രോ ഫറാഡ് മറ്റേതെങ്കിലും മൂല്യമായിരുന്നെങ്കിൽ ഈ 10 അത് 10 ആയിരിക്കരുത് അത് മറ്റെന്തെങ്കിലും ആയിരിക്കണം ഇപ്പോൾ രണ്ടാമത്തെ കാര്യം അത് എങ്ങനെയാണ് ഐ ടി പദ്ധതി ആസൂത്രണം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് i c dvdt പൊതുവെ ഇത് c dvtdt എന്ന് എഴുതാം c 1 മൈക്രോ ഫാരഡ് അതിനാൽ ഇവിടെ 10 ലേക്ക് പവർ 6 ഫറഡിലേക്ക് പരിവർത്തനം ചെയ്തു അതിനാലാണ് 10 ന് പവർ 6 dvdt കാരണം c 1 മൈക്രോ ഫാരഡ് നൽകിയിരിക്കുന്നു ഇപ്പോൾ ചിത്രം 6 b യിൽ നിന്ന് അർത്ഥമാക്കുന്നത് ഇത് ചിത്രം 6 b ആണ് ഇപ്പോൾ ഈ 0 മുതൽ ചരിവ് 102 10 പവർ 6 ലേക്ക് കണ്ടു അത് കടന്നുപോകുന്നു ഉത്ഭവത്തിലൂടെ y mx ഉത്ഭവത്തിലൂടെ കടന്നുപോകുന്ന ഒരു നേർരേഖയുടെ ഏത് സമവാക്യവും അടിസ്ഥാനപരമായി അറിയുക c c ആണ് 0 അടിസ്ഥാനപരമായി അതിൽ നിന്ന് y അക്ഷം v t ആണെന്ന് കണ്ടെത്താനാകും ഞാൻ പവർ 6 ലേക്ക് 10 മുതൽ 2 10 വരെ ചരിഞ്ഞുപോകും അതിനാൽ vt ആയിരിക്കും r 2 r 10 2 10 വരെ പവർ 6 t അത് നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ചിത്രത്തിലേക്ക് വരും അതിനാൽ 0 നും 2 നും ഇടയിൽ 0 മുതൽ 2 വരെ dvtdt വരെയുള്ള ചരിവ് 10 മുതൽ 2 10 വരെ പവർ 6 ആകുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇത് സെക്കന്റിൽ 6 വോൾട്ട് പവർ വരെ 5 10 ആയിരിക്കും കൂടാതെ 2 മുതൽ 4 സെക്കന്റ് വരെ dvtdt 0 കാരണം അത് ആ സമയത്താണ് ആർ dc ക്വാണ്ടിറ്റി എന്നത് ഒരു സമയ വ്യത്യാസമുള്ളതാണെങ്കിൽ അത് സമയം 2 മുതൽ 4 വരെ സ്വതന്ത്രമാണ് അതിന്റെ ഡെറിവേറ്റീവ് dvtdt എന്നത് 0 ആണ് മറ്റൊരു കാര്യം 0 മുതൽ 4 മുതൽ 5 സെക്കൻഡിനുള്ളിൽ വരെയാണ് ഞാൻ 10 മുതൽ 1 10 വരെ പവർ 6 ലേക്ക് പറഞ്ഞു അടിസ്ഥാനപരമായി 10 10 പവർ 6 വോൾട്ട് സെക്കന്റിൽ ഇതെല്ലാം വ്യത്യസ്ത സമയ ഇടവേളകളിൽ വോൾട്ടേജ് മാറ്റത്തിന്റെ ഈ നിരക്കിനെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ഇപ്പോൾ 0 മുതൽ 2 സെക്കന്റ് വരെ അത് c dvtdt എന്ന് അറിയുക അതിനാൽ പവർ 6 ലേക്ക് c 10 കൂടാതെ dvtdt 5 10 പവർ 6 5 ആമ്പിയർ 0 നും r 0 നും 2 സെക്കന്റിനും ഇടയിൽ ഇപ്പോൾ 2 മുതൽ 4 വരെ ഇത് 0 ആണ് കാരണം dvtdt 0 ഈ dvtdt 0 അതുപോലെ തന്നെ 4 നും 5 നും ഇടയിൽ അത് c dvtdt അതിനാൽ dvtdt 10 പവർ 6 ലേക്ക് ആ 10 10 നെ വൈദ്യുതിക്ക് 6 വോൾട്ട് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ കേസിൽ c 10 മുതൽ പവർ 6 വരെയാണ് അത് ഫാരഡ് 1 മൈക്രോ ഫാരഡ് ആണ് 10 പവർ 6 ഫാരഡ് 10 10 വരെ പവർ 6 അതിനാൽ 10 മുതൽ പവർ 6 10 വരെ പവർ 6 റദ്ദാക്കുക അത് 10 ആമ്പിയർ ആയിരിക്കും അതിന്റെ ഇതിവൃത്തം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ 0 മുതൽ 2 മൈക്രോ സെക്കന്റ് വരെ ഇത് 5 ആമ്പിയർ ആണ് ഇത് ഒരു സ്ഥിരാങ്കമാണ് കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ 2 മുതൽ 4 സെക്കൻഡ് അത് 0 ആണ് അതിനാൽ ഇത് 0 ആണ് തുടർന്ന് 4 മുതൽ 4 സെക്കൻഡ് ഇപ്പോൾ അത് 10 ആണ് 10 എന്നത് 4 മുതൽ 5 വരെയാണ് ഇത് ഐ ടി യുടെ പ്ലോട്ട് ഇത് മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ വളരെ ലളിതമായ കാര്യം ഘട്ടം ഘട്ടമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതാണ് ഞാൻ കണക്കുകൂട്ടുന്ന ഓരോ ഘട്ടവും മാത്രം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിനകം കാണിച്ച കണക്ക് പരിഹരിക്കാനുള്ള ഒരു പ്രശ്നവും നേരിടേണ്ടതില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഡിസി അവസ്ഥയിൽ ഇപ്പോൾ ചിത്രം 5 8 ൽ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം കണ്ടെത്തുക അതിനാൽ ഇത് എന്റെ ചിത്രം 5 കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇത് 1000 ഓം 3000 ഓം 6000 ഓം ഇത് 20 മൈക്രോ ഫറാഡ് ഇത് 10 മൈക്രോ ഫാരഡ് ആണ് ഇപ്പോൾ ഡിസി വ്യവസ്ഥയിൽ സർക്യൂട്ട് വീണ്ടും വരയ്ക്കുക അത് 10 മൈക്രോ ഫാരഡ് 20 മൈക്രോ ഫാരഡ് സ്ഥിരമായ അവസ്ഥയിൽ തുറക്കും കൂടാതെ 20 വോൾട്ട് ഡിസി പ്രയോഗിക്കുന്നു അതിനാൽ സർക്യൂട്ട് വായിച്ചാൽ ഇത് തുറന്നിരിക്കും ഈ 20 മൈക്രോ ഫാരഡിലുടനീളമുള്ള വോൾട്ടേജ് ബി 1 ഈ വോൾട്ടേജ് ബി 1 ഈ വോൾട്ടേജ് ബി 2 എന്നിങ്ങനെ പറയുക ഇത് തുറന്നിരിക്കുന്നു ഈ കറന്റ് ഞാൻ ഇത് ഞാൻ ഇങ്ങനെ ഒഴുകുന്നു ഇതുപോലെ ഒഴുകുകയാണ് കാരണം ഇത് തുറന്നിരിക്കുന്നു അതിനാൽ 1000 3000 6000 അങ്ങനെ 10000 ഓം i 20 10000 ആമ്പിയർ ഇതാണ് ഈ വസ്തുവിനെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ 2 മില്ലി ആമ്പിയർ അതിനാൽ i ഒരിക്കൽ i കംപ്യൂട്ട് ചെയ്താൽ i പിന്നെ b 1 b 2 എന്നിവ എളുപ്പത്തിൽ കണക്കാക്കാം അതിനാൽ കണക്കുകൂട്ടൽ കാണിക്കുന്നതിനുമുമ്പ് അതിനാൽ b 2 എന്തായിരിക്കുമെന്ന് കാണുക കാരണം ഞാൻ 1 മിനിറ്റ് മാത്രം പറയുന്നു ഇതേ കറന്റ് i ഇതിലൂടെ ഒഴുകുന്നു അതിനാൽ b 2 യഥാർത്ഥത്തിൽ b 2 ആയിരിക്കും ഈ 3000 6000 3000 6000 i ഇത് b 2 ആയിരിക്കും കാരണം ഈ 3000 6000 പരമ്പരയിലാണ് കൂടാതെ ബി 1 ബി 1 3000 i ആയിരിക്കും കാരണം ഇത് ബി 1 ലെ വോൾട്ടേജ് 3000 ഓം പ്രതിരോധത്തിലുടനീളമുള്ള വോൾട്ടേജാണ് ഈ ബി 1 ബി 2 എന്നിവ ലഭിച്ചുകഴിഞ്ഞാൽ സി 1 സി 2 എന്നിവയ്ക്ക് 12 സിവി 1 2 12 സിവി 2 2 എന്നിവ ശേഖരിച്ച ഊർജ്ജം കണക്കാക്കാം i 2 മില്ലി ആമ്പിയറി ഇപ്പോൾ ലഭിക്കും b 1 ഞാൻ പറഞ്ഞു 3000 കറന്റ് i 2 10 പവർ 3 ലേക്ക് 6 വോൾട്ട് കൂടാതെ b 2 9000 i അത് 9000 2 10 വരെ പവർ 18 വോൾട്ട് ഈ മില്ലി ആമ്പിയർ എന്നാൽ പവർ 3 ആമ്പിയറിന് 2 10 എന്നാണ് ഇത് പവർ 2 മുതൽ 10 വരെ പവർ 3 ആമ്പിയർ വരെ 2 10 ആണ് ഇത് പവർ 3 ആമ്പിയർ 18 വോൾട്ട് വരെ 2 10 ആണ് അതിനാൽ w 1 12 c 1 v 1 2 അതിനാൽ 12 സി 1 ന് 20 മൈക്രോ ഫാരഡ് നൽകി അതിനാൽ 20 10 പവർ 6 ബി 2 അതിനാൽ 6 6 അതിനാൽ 360 മെഗ് ഒരു മില്ലി ജൂൾ ഇത് മില്ലി ജൂളിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം10പവർ 6 അവിടെയുണ്ട് അതുപോലെ 12 c 2 v 2 2 12 rc 2 മൂല്യം 10 മൈക്രോ ഫാരഡ് അതിനാൽ 10 മുതൽ പവർ 6 ഫാരഡ് വോൾട്ട് 2 18 18 വരെ ഇത് 1620 മില്ലി ജൂൾ ആയിരിക്കും അതിനാൽ ഇതിനർത്ഥം സ്ഥിരമായ ഡിസി പ്രയോഗിക്കുമ്പോഴെല്ലാം കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് പോലെ പ്രവർത്തിക്കും അതിനാലാണ് കപ്പാസിറ്ററുകൾ തുറന്നിരിക്കുന്നത് സർക്യൂട്ട് പരിഹാരം വളരെ എളുപ്പമാണ് അതിനാൽ കുറച്ച് അടിസ്ഥാനകാര്യങ്ങൾ മനസിലാക്കാൻ ഇത് വളരെ ലളിതമാണ്